എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ദുരന്ത ദുർബലത അതിൻറെ ചില ആശയങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കും ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയിലെ ഡിപിആർഐ ദുരന്ത നിവാരണ ഗവേഷണ സ്ഥാപനത്തിൽ നിന്നുള്ള സുഭജ്യോതി സമദ്ദറാണ് ഞാൻ നമുക്ക് ഇവിടെ നോക്കാം വളരെക്കാലമായി ദുരന്തം പഠിപ്പിക്കപ്പെട്ടു അത് ഒരു ശാരീരിക സംഭവം മാത്രമായി കണക്കാക്കപ്പെടുന്നു ഈ ശാരീരിക സംഭവം വലുതാണെങ്കിൽ ദുരന്തവും വലുതാണ് ഈ ശാരീരിക സംഭവം ചെറുതാണെങ്കിൽ ദുരന്തവും ചെറുതാണ് ഈ ഭൌതിക സംഭവം ഇല്ലെങ്കിൽ ആർക്കും ഒരു ദുരന്തം പ്രതീക്ഷിക്കാനാവില്ല അതിനാൽ വളരെ വലിയ ഭൌതിക സംഭവം സ്വാഭാവികവും ശാരീരികവുമായ സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ കാരണം നാം നേരിടുന്ന ദുരന്തവും വലുതാണ് അതിനാൽ ദുരന്തത്തെ നിയന്ത്രിക്കുന്നതിനുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സാങ്കേതിക പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ മലയിൽ നിന്ന് ഈ താഴ്വരകളിലേക്ക് വരുന്ന ഈ കല്ല് പോലും ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്കറിയാം എന്തുകൊണ്ട് ലളിതമായ കാരണം ഇത് കേവലം ഒരു അപകടമാണ് അത് ചില ഫലങ്ങൾക്ക് കാരണമാകും ഇത് ഒരു ശാരീരികം മാത്രമാണ് ഈ കല്ല് ഒരു ഭൌതിക സംഭവമോ പ്രതിഭാസമോ മാത്രമാണ് അല്ലെങ്കിൽ അത് ചില മാനുഷിക പ്രവർത്തനമോ ആവാം പരിക്ക് മനുഷ്യനഷ്ടം സ്വത്ത് നഷ്ടം സാമൂഹികവും സാമ്പത്തികവുമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക തകർച്ച എന്നിവയ്ക്ക് ഇത് കാരണമായേക്കാം അത് ഒളിഞ്ഞിരിക്കുന്നു ഇത് സംഭാവ്യതയെ ആശ്രയിച്ചിരിക്കുന്നു അത് എവിടെ നിന്ന് വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അത് ഒളിഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാകുന്നതുവരെ ഈ ശാരീരിക സംഭവ പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഹിമാലയത്തിൽ ഹിമപാതമുണ്ടെങ്കിൽ നാം അത് കാര്യമാക്കുന്നില്ലെന്ന് മറ്റ് പ്രഭാഷണങ്ങളിൽ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ആഴക്കടലിൽ നമുക്ക് ഭൂകമ്പമുണ്ടെങ്കിൽ മെയിൻ ലാന്റിൽ സുനാമി വരുന്നതുവരെ നമ്മൾ അത് കാര്യമാക്കുന്നില്ല അതിനാൽ ഈ മനുഷ്യൻ താഴ്വരയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ കല്ല് ദുരന്തമോ അപകടകരമായ അവകാശമോ ആയി കണക്കാക്കില്ല ഒരു മഴയുണ്ടെങ്കിൽ ഈ മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ കല്ല് ഈ വ്യക്തിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആശങ്കയുണ്ട് അതിനാൽ ഈ വ്യക്തി അത്തരം അപകടങ്ങൾക്ക് വിധേയരാകുന്നു അതിനാലാണ് ആ പ്രത്യേക ദുരന്തമോ പ്രത്യേക ദുരന്തസാധ്യതയോ കൈകാര്യം ചെയ്യാൻ ആശങ്കയുള്ളത് അയാൾ ഇവിടെ ഇല്ലാത്തത് പോലെയാണെങ്കിൽ അവൻ പ്രവർത്തിക്കുന്നില്ല മനുഷ്യനില്ല വനം മാത്രം പിന്നെ നാം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അത് അപകടസാധ്യതയായി കണക്കാക്കുന്നില്ല ഇതിന് മനുഷ്യനഷ്ടമോ മനുഷ്യ പ്രഭാവമോ ഉണ്ടാക്കാൻ കഴിയില്ല അത് പോലെ ലളിതമാണ് എത്രപേർ ദുരന്തത്തിന് തുറന്നുകാട്ടപ്പെടുന്നു എന്നല്ല മറിച്ച് അവർ ആരാണ് അവരുടെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണ് ചെറുപ്പക്കാർ പ്രായമുള്ളവർ അവർ കുട്ടികളാണോ അവർ ദരിദ്രരാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവർ സമ്പന്നരാണോ അതിനാൽ ദുരന്തസാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ മാനുഷിക സവിശേഷതകളും പ്രാധാന്യമർഹിക്കുന്നു അവർ ധനികരെക്കാൾ ദരിദ്രരാണെങ്കിൽ അവർ ധനികരെക്കാൾ കൂടുതൽ ദുർബലരാണ് അവർ പഴയ മുതിർന്ന പൌരന്മാരാണെങ്കിൽ അവർ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ദുർബലരാണ് അവർ കുട്ടികളാണെങ്കിൽ മറ്റ് സാധാരണക്കാരേക്കാളും അവർ ദുർബലരാണ് അതിനാൽ ഈ ആളുകളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഏത് തരത്തിലുള്ള സെറ്റിൽമെന്റുകൾ ആരാണ് അവരുടെ കെട്ടിടങ്ങൾ എങ്ങനെ ഉള്ളതാണ് അത് ഒരു കച്ച വീട് പക്കാ വീട് തടി വീട് സ്റ്റിൽറ്റ് ഹൌസ് കോൺക്രീറ്റ് വീട് kutcha house pucca house wooden house stilt house concrete house എന്നിവയാണ് അതിനാൽ കെട്ടിടങ്ങളുടെയും ജനസംഖ്യയുടെയും ഈ സവിശേഷതകൾ ഇതിനെ ബാധിക്കുന്നു ഈ കല്ല് എങ്ങനെ എന്ത് വ്യാപ്തിയിൽ യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തെ ബാധിക്കുമെന്നത് പ്രധാനമാണ് ഇത് മനുഷ്യനഷ്ടം ആകാം അത് മറ്റ് സാമൂഹിക സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ സ്വത്ത് നാശനഷ്ടം എന്നിവ ആകാം അതിനാൽ ശാരീരികവും സാമൂഹികവും സാമ്പത്തികവുമായ പാരിസ്ഥിതിക ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയ നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥ ഏത് പരിധി വരെ വർദ്ധിക്കുന്നു എന്നതാണ് ദുർബലത ഒരു പ്രത്യേക അപകടത്തിന് വിധേയമാകുന്ന ഈ പ്രത്യേക വസ്തുവിനെ ബാധിക്കും ഞാൻ ആരെയെങ്കിലും ചവിട്ടിയാൽ ആർക്കെങ്കിലും അതിനെ ചെറുക്കാൻ കഴിയും ദുർബലനായതിനാൽ മറ്റൊരാൾക്ക് അതിനെ ചെറുക്കാൻ കഴിയില്ല അതിനാൽ എനിക്ക് ആരെയെങ്കിലും നിർബന്ധിക്കാൻ കഴിയുമെങ്കിലും എനിക്ക് ആരെയെങ്കിലും ചവിട്ടാൻ കഴിയും പക്ഷേ അതിന്റെ ആഘാതം എന്റെ ശേഷിയെ മാത്രമല്ല ആരെയാണ് ഞാൻ ചവിട്ടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആർക്കെങ്കിലും അതിനെ ചെറുക്കാൻ കഴിയും മറ്റൊരാൾക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല അത് അവരുടെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ എനിക്ക് ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് എന്റെ ശേഷിയെ എന്റെ അവസ്ഥകളെ ആഘാതത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന എന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ദുരന്തസാധ്യത നമുക്ക് ഇതിനകം തന്നെ അറിയാം ഇത് 3 നിർണായക ഘടകങ്ങളാണെന്ന് ഇതിനകം സമ്മതിച്ചിട്ടുണ്ട് അതിലൊന്നാണ് അപകടം തീർച്ചയായും അത് അവിടെ ഉണ്ടായിരിക്കണം എന്തെങ്കിലും കേടുപാടുകൾക്ക് കാരണമായേക്കാവുന്ന ഒരു ഒളിഞ്ഞ ശാരീരിക സംഭവം എക്സ്പോഷർ ചില ആളുകളും വാസസ്ഥലങ്ങളും ആ അപകടത്തിനും അപകടസാധ്യതയ്ക്കും വിധേയമാകണം ദുർബലത ആളുകളുടെ അല്ലെങ്കിൽ വാസസ്ഥലങ്ങളുടെ അവസ്ഥകളും സവിശേഷതകളും അവർ ആ അപകടത്തിന് വിധേയമാണ് അതിനാൽ പൊതുവെ ദുരന്തം ഈ 3 ഘടകങ്ങളുടെ പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്നു കാരണം ഇത് വളരെ വ്യക്തമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഒരു പുതിയ ആശയമല്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഇത് വളരെക്കാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ആശയം പ്രായോഗികമാക്കുകയോ ദുരന്തസാധ്യതാ മാനേജ്മെന്റ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങളും നയങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രശ്നം ദുരന്തസാധ്യതയുടെ അർത്ഥമെന്താണെന്നും ഏത് തരത്തിലുള്ള സ്വഭാവസവിശേഷതകളാണ് ദുരന്തസാധ്യതയെ നിർവചിക്കുന്നതെന്നും നാം വ്യക്തമായി അറിയേണ്ടതുണ്ട് ഇതുവരെ നിരവധി നിർവചനങ്ങൾ ഉണ്ട് സമവായ തീരുമാനങ്ങളിൽ എത്താൻ നമ്മൾ വളരെ അപൂർവമായി മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ ശാസ്ത്രജ്ഞർ പരിശീലകർ ആസൂത്രകർ ദുരന്തദുർബലതയുടെ നിർവചനം അതിന്റെ സൂചകങ്ങൾ അതിന്റെ പാരാമീറ്ററുകൾ എന്നിവയെക്കുറിച്ച് അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് അതിനാൽ ദുരന്തദുർബലതയെക്കുറിച്ചുള്ള നിർണായകവും സൈദ്ധാന്തികവുമായ ചില ആശയപരമായ വശങ്ങൾ പരിശോധിക്കുന്നത് നിർണായകമാണ് ഇവിടെ ഈ പ്രഭാഷണത്തിൽ അത്തരം രണ്ട് പ്രമുഖ ആദ്യകാല സിദ്ധാന്തങ്ങളിലേക്കോ ദുരന്തദുർബലതയെക്കുറിച്ചുള്ള ആശയങ്ങളിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആദ്യത്തേത് 2001 ൽ ബോലെയുടെ ആണ് ഇത് ദുർബലതയുടെ ഇരട്ട ഘടനയാണ് അവർ 2 വശങ്ങളിൽ നിന്ന് ദുരന്തദുർബലത കാണുന്നു അവർ പറയുന്നത് ദുരന്തമാണ് ദുരന്തദുർബലതയല്ല മറിച്ച് ദുർബലതയ്ക്കു രണ്ട് ഘടകങ്ങളുണ്ട് രണ്ട് പ്രധാന ഘടകങ്ങൾ ഉണ്ട് ഒന്ന് ആന്തരിക ഘടകമാണ് മറ്റൊന്ന് ഒരാളുടെ ദുർബലതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബാഹ്യ ഘടകമാണ് ആന്തരിക ഘടകം എന്താണ് ആന്തരിക ഘടകമാണ് കോപ്പിംഗ് ഘടകം എന്താണ് കോപ്പിംഗ് ഘടകം ബൌൺസ് ബാക്ക് എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തിന്റെ ആഘാതം സ്വാംശീകരിക്കാൻ കഴിയുമെന്നത് യഥാർത്ഥത്തിൽ എന്റെ ശേഷിയാണ് അതിനാൽ എന്തെങ്കിലും വരും എന്തെങ്കിലും സംഭവിക്കും നേരിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാനുള്ള എന്റെ കഴിവ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തെ എനിക്ക് എത്രത്തോളം മറികടക്കാൻ കഴിയും ആ അപകടസാധ്യത അല്ലെങ്കിൽ ആ അപകടം ഞെട്ടൽ എങ്ങനെ ആഗിരണം ചെയ്യാം പ്രതിരോധം എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ എനിക്ക് എത്രത്തോളം ചെറുക്കാൻ കഴിയും ദരിദ്രരെപ്പോലെ അവർക്ക് സാമ്പത്തികമായി എതിർക്കാൻ കഴിയില്ല ഒരുപക്ഷേ ധനികർക്ക് എതിർക്കാനാകും ആരുടെയെങ്കിലും കട വളരെ ധനികന് ഒരു ബിസിനസ്സ് ഉണ്ടെങ്കിൽ അത് ദുരന്തതാൽ ബാധിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ മൂലധനം ഉള്ളതിനാൽ അതിൽ നിന്ന് എളുപ്പത്തിൽ കരകയറാൻ കഴിയും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഭൂരഹിത തൊഴിലാളി ദുരന്തത്തിനുശേഷം അദ്ദേഹത്തെ ബാധിക്കില്ല മാത്രമല്ല പണം ഇല്ലാത്തതിനാലും അല്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പ് ഉടമയായതിനാലും തിരികെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അയാളുടെ വീടിനെയോ കടയെയോ ദുരന്തം ബാധിച്ചുകഴിഞ്ഞാൽ അയാൾക്ക് വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ എന്നതിനാൽ ബിസിനസ്സ് വീണ്ടും നടത്തുന്നതിന് വളരെ സമയമെടുക്കും അതിനാൽ എനിക്കെങ്ങനെ അതിനെ ചെറുക്കാൻ കഴിയും അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാനും കഴിയും ആഘാതത്തിൽ നിന്ന് മുൻകൂട്ടി അറിയാനും നേരിടാനും പ്രതിരോധിക്കാനും വീണ്ടെടുക്കാനുമുള്ള എന്റെ കഴിവാണ് ഇത് നേരിടാനുള്ള കഴിവിനെ നിർവചിക്കുന്ന ആശയം ഇത് എന്റെ ആന്തരികമായ കഴിവാണ് ഇത് വ്യക്തിഗത ആന്തരിക സവിശേഷതകളെയോ കമ്മ്യൂണിറ്റികളെയോ ആശ്രയിച്ചിരിക്കുന്നു സ്വന്തം സവിശേഷതകൾ ഇത് ഒരു ഏകസ്ഹോജൻസ് വേരിയബിൾ അല്ല പക്ഷേ ഉണ്ട് ഈ ഘടകങ്ങൾ ഒരാളുടെ കൈകളിലാണ് ഒരു ഗ്രൂപ്പിന്റെ കൈകളിലോ കമ്മ്യൂണിറ്റികളിലോ ഇത് നിയന്ത്രിക്കാൻ കഴിയും മറുവശത്ത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ബാഹ്യ ഒന്ന് ഉണ്ട് ഇത് ഒരു എക്സോജനസ് വേരിയബിൾ ആണ് അവ എന്തൊക്കെയാണ് ദുർബലതയുടെ ഈ ഇരട്ട ഘടനയിൽ ബാഹ്യ വേരിയബിളുകളെ എക്സ്പോഷറായി കണക്കാക്കുന്നു എന്തിനുവേണ്ടിയുള്ള എക്സ്പോഷർ ചില ആഘാതം അല്ലെങ്കിൽ ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഏത് തരത്തിലുള്ള ആഘാതങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് സ്വാഭാവിക പ്രതിഭാസങ്ങളോ ചില പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ഒരുതരം പ്രത്യേക എക്സ്പോഷറല്ല മറിച്ച് ഞാൻ എങ്ങനെ പ്രതിരോധമില്ലാത്തവനാണ് എന്നതാണ് ഇത് സാമൂഹികവും സ്ഥാപനപരവുമായ ഘടനയെ നിർവചിച്ചു അതിന്റെ സവിശേഷതകളെ വ്യക്തികളെ ഒരു പ്രത്യേക അപകടത്തിലേക്കലേക്ക് കൊണ്ടുവരികയും ഞാൻ ഒരു പുറത്താക്കപ്പെട്ട ആളാണെങ്കിൽ എനിക്ക് കുറഞ്ഞ നെറ്റ്വർക്കുകൾ ആണ് ഉള്ളത് ഇത് യഥാർത്ഥത്തിൽ ഒരു അപകടത്തിലേക്കുള്ള എന്റെ എക്സ്പോഷർ വർദ്ധിപ്പിക്കും ഒരു ഭീഷണിയിലേക്ക് ഒരു റിസ്കി ലേക്ക് ദുർബലതയുടെ ഇരട്ട ഘടന രണ്ട് ഘടകങ്ങൾ ഒന്ന് എക്സ്പോഷർ ബോഹെ അനുസരിച്ച് ഈ എക്സ്പോഷർ 3 വ്യത്യസ്ത അളവുകളിൽ നിന്ന് ഈ എക്സ്പോഷർ സന്ദർഭം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലൊന്നാണ് മനുഷ്യന്റെ പാരിസ്ഥിതിക വീക്ഷണം ജനസംഖ്യാ ചലനാത്മകത പരിസ്ഥിതിയെ നിയന്ത്രിക്കാനുള്ള ശേഷി ജനസംഖ്യാ വർധന മനുഷ്യ പരിസ്ഥിതി ജനസംഖ്യാ വളർച്ചയെ എങ്ങനെ കാണുന്നു പരിസ്ഥിതിയെ നിയന്ത്രിക്കാനുള്ള ശേഷി കൂടാതെ എന്റൈറ്റിൽമെന്റ് തിയറി കപ്പാസിറ്റി തിയറി ജനങ്ങൾക്ക് നിയന്ത്രണത്തിനും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ഉണ്ട് അസമത്വം അല്ലെങ്കിൽ ആസ്തികളുടെ അസമത്വം ഊർജ്ജ ഘടന പോലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സമീപനം അതിനാൽ ഈ പ്രശ്നങ്ങൾ എക്സ്പോഷറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സമീപനങ്ങൾ പരിഗണിക്കണം ആളുകളുടെ നേരിടലിനെ മനസിലാക്കുന്നതിന് പ്രതിസന്ധി സംഘർഷ തരത്തിലുള്ള പഠനങ്ങൾ എന്നിവയിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കാൻ നമുക്ക് കഴിയും അവർക്ക് ആസ്തികളിലേക്കും വിഭവങ്ങളിലേക്കും പ്രവേശനമുണ്ട് അത് എങ്ങനെ പൊരുത്തക്കേടാണ് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കുമിടയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആക്ഷൻ തിയറി സമീപനങ്ങൾ ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു സാമൂഹിക സാമ്പത്തിക ഗവൺമെൻറ് പരിമിതികളുടെ ഫലമായി ഇടയ്ക്കിടെ പ്രതികരിക്കുന്നു ആക്സസ്സിലൂടെയുള്ള അപകടസാധ്യത കുറയ്ക്കുന്നതുപോലുള്ള അക്സസ്സ് ടു അസെറ്റ്സ് മോഡൽ അതിനാൽ അപകടദുർബലതകളെ പ്രതികരിക്കുന്നതിന് കോപ്പിംഗ് സ്വഭാവസവിശേഷതകളോ ആളുകളുടെ ആന്തരിക സവിശേഷതകളോ മനസിലാക്കാൻ ഈ സമീപനങ്ങൾ നമ്മളെ സഹായിക്കും സുസ്ഥിര ഉപജീവന ചട്ടക്കൂടാണ് ദുർബലതയെക്കുറിച്ചുള്ള കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ആശയം ഇത് ശരിക്കും ദുർബലതയിലല്ല മറിച്ച് അവ ദുർബലതയെ നിർവചിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു മുൻനിര സമീപനമാണ് ഇത് ഇപ്പോൾ പതിവായി ദുരന്തസാധ്യതയിലും മറ്റ് റിസ്ക് മാനേജ്മെന്റിലും ഉപയോഗിക്കുന്നു 1992 ൽ പ്രശസ്ത വ്യക്തികളായ റോബർട്ട് ചേമ്പേഴ്സും കോൺവേയും ചേർന്നാണ് ഈ ആശയം വികസിപ്പിച്ചെടുത്തത് അവർ സംസാരിക്കുന്നത് ദാരിദ്ര്യ പ്രശ്നങ്ങളെയും ഉപജീവന പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഈ മാതൃക പിന്നീട് അന്താരാഷ്ട്ര വികസനത്തിനായി ഡിഎഫ്ഐഡി വകുപ്പ് സ്വീകരിച്ചു അവരുടെ ശ്രദ്ധ ദരിദ്രരെയും അവരുടെ ഉപജീവനത്തെയും പോലെയാണ് അവർ ദുർബലതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദുരന്ത വീക്ഷണകോണിൽ നിന്നല്ല വന്നത് പക്ഷേ അവർ സംസാരിക്കുന്നത് പാവപ്പെട്ട ആളുകളെയും വികസനത്തിന്റെ കാര്യത്തിൽ അവരുടെ ഉപജീവനത്തെയും അവരുടെ മാതൃകയുടെ കേന്ദ്രത്തിലുള്ള ആളുകളെയും നിർവചിക്കുന്നു ആളുകളെ വികസനത്തിന്റെ കേന്ദ്രത്തിലേക്ക് നയിക്കേണ്ടതാണ് കൂടാതെ അവരുടെ ഉപജീവനമാർഗ്ഗം നിലനിർത്താനുള്ള ജനങ്ങളുടെ ശേഷിയെ സ്വാധീനിക്കുന്ന ഒരുതരം ഷോക്ക് അല്ലെങ്കിൽ ഒരുതരം പ്രവണത അല്ലെങ്കിൽ കാലികത എന്നിവയാണ് ദുർബലതയെ കണക്കാക്കുന്നത് ദുർബലത ആളുകളുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാനപരമായി അവരുടെ ഉപജീവനമാർഗ്ഗം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ രണ്ട് പ്രധാന ഘടകങ്ങൾ ഒന്ന് സുസ്ഥിരതയും ഉപജീവനവുമാണ് അതിനാൽ വിവിധ സാഹചര്യങ്ങളിൽ ഒരു ഉപജീവനമാർഗം സുസ്ഥിരമായിത്തീരുന്നു അല്ലെങ്കിൽ ഉപജീവനമാർഗം സുസ്ഥിരമായി കണക്കാക്കണം നമുക്ക് നോക്കാം ഈ ആഘാതം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പ്രകൃതിദുരന്തങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ആഘാതങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് പോകാൻ കഴിയും അവർ തീർന്നു പോകില്ല അപ്പോൾ ഒരാൾക്ക് ഈ ഉപജീവനസ്വർഗ്ഗത്തിനും ഈ ആളുകൾക്കും അപകടമോ ഇല്ല അവർ ദുർബലരല്ലെന്ന് പറയാൻ കഴിയും കൂടാതെ ഒരാളുടെ ഉപജീവനമാർഗം ബാഹ്യ ഏജൻസികളെ ബാഹ്യ പിന്തുണയെ ആശ്രയിക്കരുത് നമ്മൾ ഒരു ഗ്രാമീണ സമൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സ്വയം ആശ്രയിക്കണം സ്വതന്ത്രമായിരിക്കരുത് ബാഹ്യ ആളുകളെ ആശ്രയിക്കരുത് തുടർന്ന് അതിനെ സുസ്ഥിരമെന്ന് വിളിക്കുന്നു കൂടാതെ വളരെ ഹ്രസ്വകാലത്തിൽ നിന്ന് നാം പരിഗണിക്കേണ്ടതില്ല പക്ഷേ ഈ ഉപജീവനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘകാല വീക്ഷണകോണിൽ എത്രമാത്രം പ്രതിരോധം പുലർത്തുന്നുവെന്നും എന്റെ സ്വന്തം ഉപജീവനമാർഗ്ഗം നിലനിർത്തുന്നതിനായി ഞാൻ പാഴാക്കുന്നില്ലെന്നും ഞാൻ നശിപ്പിക്കുന്നില്ലെന്നും കാണുന്നു മറ്റുള്ളവരുടെ ഉപജീവന മാർഗ്ഗങ്ങളോ ചോയിസുകളോ നിർവഹിക്കുന്നില്ല അതിനാൽ ഈ മോഡൽ അനുസരിച്ച് ആളുകൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു അവർ പ്രവർത്തിക്കുന്നത് ദുർബലതയുടെ പശ്ചാത്തലത്തിലാണ് ദുർബലതയുടെ സന്ദർഭം എന്താണ് അതിനാൽ ആളുകൾക്ക് അപകടസാധ്യതയുള്ള 3 സ്വഭാവസവിശേഷതകളാൽ ദുർബലത സന്ദർഭം നിർവചിക്കപ്പെടുന്നു ഷോക്ക് ട്രെൻഡുകൾ കാലാനുസൃതത shock trends and seasonality അപ്പോൾ എന്താണ് ഷോക്ക് അതിലൊന്നാണ് വെള്ളപ്പൊക്കം വരൾച്ച ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതിദത്ത ആഘാതങ്ങൾ കോളറ അല്ലെങ്കിൽ ഡെങ്കി പോലുള്ള പകർച്ചവ്യാധി പോലുള്ള ആരോഗ്യ ആഘാതങ്ങൾ അല്ലെങ്കിൽ ചില സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കുടുംബത്തിൽ മരണം അല്ലെങ്കിൽ സിറിയയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ കാര്യത്തിൽ അവർ ആഭ്യന്തര യുദ്ധത്തിലോ ബോസ്നിയയിലോ ആയിരിക്കുമ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും ആഭ്യന്തര യുദ്ധം പോലുള്ള അക്രമങ്ങൾ എന്നിവ പോലുള്ള സാമ്പത്തിക ആഘാതം അതിനാൽ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ വ്യക്തികളെ ശരിക്കും ദുർബലവും അക്രമവും ആഭ്യന്തര അശാന്തിയും ആക്കുന്നു ഇതെല്ലാം ഒരു ആഘാതമായി കണക്കാക്കപ്പെടുന്നു ആളുകൾ ദുർബലമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നു മറ്റൊന്ന് കാർഷിക തൊഴിലാളികളുടെയോ ഉൽപാദനത്തിന്റെയോ ഭക്ഷ്യവിളകളുടെ വില പോലെയുള്ള കാലാനുസൃതമായതുമായ മാറ്റം ഉൽപാദനം കുറവോ ഉയർന്നതോ ആണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വർഷം ഉൽപാദനം അത്ര ഉയർന്നതായിരിക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷേ ഭക്ഷണ ലഭ്യത അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഒരു പ്രത്യേക സീസണിൽ എനിക്ക് എത്ര ദിവസം തൊഴിൽ അവസരമുണ്ട് ഒരുപക്ഷേ ശൈത്യകാലത്ത് എനിക്ക് കാർഷിക തൊഴിലാളിയായി ജോലിയില്ല കാരണം ആരും ഈ സമയം വിളവെടുക്കുന്നില്ല മഴയുള്ള ദിവസങ്ങളിൽ മികച്ച ജോലി ഉണ്ട് ജനസംഖ്യ പോലുള്ള പ്രവണതകളും മാറ്റങ്ങളും ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒരു ഭീഷണിയാകാം അല്ലെങ്കിൽ ആളുകളെ ദുർബലമായ സന്ദർഭത്തിലേക്ക് നയിക്കുന്നു കൂടാതെ ചില രാജ്യങ്ങളുടെ കാര്യത്തിൽ ജപ്പാന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലോ ആണെങ്കിൽ ജനസംഖ്യയെക്കുറിച്ച് ഒരു ചോദ്യമുണ്ട് ഏതൊരു സമൂഹത്തിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേയുള്ളൂ ചെറുപ്പക്കാർ അതിനാൽ ആ കമ്മ്യൂണിറ്റിയുടെ ദുർബലത വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും പാരിസ്ഥിതിക മാറ്റം അല്ലെങ്കിൽ ചില സാങ്കേതിക മാറ്റങ്ങൾ വിപണി വ്യാപാരം ആഗോളവൽക്കരണം ഗവൺമെന്റ് ചില ഗവൺമെന്റുകൾ പോലുള്ള നയങ്ങൾ സുസ്ഥിരമാണ് ചില സർക്കാരുകൾ സ്ഥിരതയുള്ളവയല്ല അതിനാൽ രാഷ്ട്രീയ സാഹചര്യം പ്രതിസന്ധിയിലാണെങ്കിൽ അത് ജനങ്ങളുടെ അപകടസാധ്യത വർദ്ധിപ്പിക്കും അതിനാൽ ആളുകളുടെ നേരിട്ടുള്ള ദുർബലമായ സന്ദർഭം നിർവചിക്കുന്നതിന് 3 അവസ്ഥകൾ പ്രധാനമാണ് അതിലൊന്നാണ് ഷോക്ക് ട്രെൻഡ് സീസണാലിറ്റി shock trend and seasonality ഇപ്പോൾ ഈ ദുർബലമായ സന്ദർഭം യഥാർത്ഥത്തിൽ ഇവർ ദരിദ്രരാണ് ഇത് അവരുടെ ഗാർഹിക ശേഷിയെയോ വ്യക്തിഗത ശേഷിയെയോ ബാധിക്കുന്നു അതിനാൽ അവർക്ക് യഥാർത്ഥത്തിൽ വ്യത്യസ്ത തരം മൂലധനങ്ങൾ അല്ലെങ്കിൽ ശേഷികൾ ആണ് ഉള്ളത് ഒന്ന് മനുഷ്യ മൂലധനം സാമൂഹിക മൂലധനം സാമ്പത്തിക മൂലധനം ഭൌതിക മൂലധനം ഇപ്പോൾ അവ രണ്ടും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ദുർബലതയും മൂലധനവും പ്രത്യേക ആഘാതത്തിന് അവർ എങ്ങനെ എത്രത്തോളം ഇരയാകുന്നുവെന്നും മൂലധനം നിർവചിക്കുന്നു ഈ ഉപജീവന ആസ്തികളെയും മൂലധനങ്ങളെയും എങ്ങനെ പരിശോധിക്കും 5 മൂലധനങ്ങളുണ്ടെന്ന് പറയുന്ന ഉപജീവന ആസ്തി മനുഷ്യ മൂലധനം സാമൂഹിക മൂലധനം ഭൌതിക മൂലധനം സാമ്പത്തിക മൂലധനം പ്രകൃതി മൂലധനം മനുഷ്യ മൂലധനം വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല ആരോഗ്യം പോലുള്ള അറിവും നൈപുണ്യവും ഞാൻ കഴിവുള്ള വ്യക്തിയാണ് പോഷകാഹാരം എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നു പോഷകസമൃദ്ധമായ ഭക്ഷണം അധ്വാനിക്കാനുള്ള കഴിവ് എനിക്ക് ജോലി ചെയ്യാൻ കഴിയും എനിക്ക് എന്റെ അധ്വാനം നൽകാൻ കഴിയും പൊരുത്തപ്പെടാനുള്ള ശേഷി ഏത് സാഹചര്യത്തിലും എനിക്ക് സാംസ്കാരികമായി പൊരുത്തപ്പെടാൻ കഴിയും കൂടാതെ സാമൂഹിക മൂലധനം തീർച്ചയായും എന്റെ ബന്ധങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്റെ മനുഷ്യ ബന്ധങ്ങൾ പരസ്പരം ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ അംഗത്വം ഔപചാരികവും അനൌപചാരികവും ആയ ബന്ധങ്ങൾ എനിക്ക് ഏതെങ്കിലും ക്ലബിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു പൂജയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔപചാരികവും അനൌപചാരികവുമായ ബന്ധം എന്റെ സാമൂഹിക മൂലധനത്തെ നിർവചിക്കുന്നു ഞാൻ പുറത്താക്കപ്പെട്ടാൽ ഒരു പ്രത്യേക ഗ്രൂപ്പിലും എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നു ആഘാതങ്ങൾ ആഗിരണം ചെയ്യുന്നതിനോ ഭീഷണി സ്വാംശീകരിക്കുന്നതിനോ എനിക്ക് ശേഷി കുറവാണ് വിശ്വാസ്യതയും പരസ്പര പിന്തുണയും അടിയന്തിര സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നാം പരസ്പരം സഹകരിക്കേണ്ടതുണ്ട് നമ്മൾ പരസ്പരം വിശ്വസിക്കേണ്ടതുണ്ട് കാരണം വിശ്വാസം അനിശ്ചിതത്വം കുറയ്ക്കുന്നു അതിനാൽ ഒരു ഗ്രൂപ്പിലെ വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസവും പരസ്പര പിന്തുണയും വളരെ പ്രധാനമാണ് അതിലൊന്നാണ് സാമൂഹിക മൂലധനം സാമൂഹിക മൂലധനം നിയമങ്ങളും ഉപരോധങ്ങളും സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ചില ആളുകൾക്ക് അവരുടെ ഉപജീവനമാർഗ്ഗം നിലനിർത്താനുള്ള എല്ലാ അവസരങ്ങളും ലഭിക്കാൻ തുറന്ന പ്രവേശനമുണ്ടോ ഇല്ലയോ എന്ന് വളരെ ശ്രേണിപരമായ സമൂഹങ്ങളുടെ കാര്യത്തിൽ താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ താഴ്ന്ന വർഗ്ഗക്കാർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു സാധാരണയായി അവരുടെ നേട്ടങ്ങൾ സമൂഹത്തിന് ലഭിക്കുന്നില്ല അതിനാൽ മറ്റുള്ളവരുമായി മത്സരിക്കാൻ അവർക്ക് സാമൂഹികമായി വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല അതിനാൽ അവരുടെ മുന്നേറ്റങ്ങൾ സാമൂഹിക സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് പലതരം സാമൂഹിക മാനദണ്ഡങ്ങൾ കാരണം അവയുടെ അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നു നേതൃത്വം ഒരു നല്ല നേതാവ് വളരെ പ്രധാനമാണ് ഏതുതരം നേതൃത്വ നിലവാരം വഹിക്കുന്നു എന്നത് അവരുടെ ദുർബലതയുടെ നിലവാരത്തെ ആശ്രയിക്കുന്നു ഒപ്പം പങ്കാളിത്തവും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തം എനിക്ക് ഉടമസ്ഥാവകാശമുണ്ടെങ്കിൽ ടൌൺ നെയ്ഹ്ബൌർഹുഡ് തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഗ്രാമ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കാൻ എനിക്ക് അവകാശമുണ്ട് ഒരു വലിയ ശേഷിയുള്ള തീരുമാനങ്ങളെ എനിക്ക് സ്വാധീനിക്കാൻ കഴിയും അത് എന്റെ ദുർബലതയെ നേരിട്ട് സ്വാധീനിക്കുന്നു സാമൂഹിക മൂലധനം അടിസ്ഥാന സൌകര്യങ്ങൾ പോലുള്ള ഭൌതിക മൂലധനമുണ്ട് അടിസ്ഥാനപരമായി ഇത് ഒരു ഗതാഗത സംവിധാനം അല്ലെങ്കിൽ പാർപ്പിടം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ മതിയായ ജലവിതരണം ശുചിത്വം വിവരങ്ങളുടെ ലഭ്യത എന്നിവ പോലുള്ള ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളാണ് അതിനാൽ ഇത് ഒരു ഗ്രാമത്തെ നിർവചിക്കുന്നു ഭൌതിക മൂലധനം അല്ലെങ്കിൽ താങ്ങാനാവുന്ന ഊർജ്ജത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമവുമായി എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം ഉൽപ്പാദനം ഉൽപാദന നിർമ്മാതാവ് അടിസ്ഥാനപരമായി ഉപകരണങ്ങളും സാങ്കേതികവിദ്യകളും ഉൽപാദനത്തിനുള്ള ഉപകരണങ്ങളും രാസവളങ്ങൾ വിത്തുകൾ കീടനാശിനികൾ ഇത് ഒരു പ്രൊഡ്യൂസർ ഗുഡ്സ് അല്ലെങ്കിൽ പ്രാദേശിക സാങ്കേതികവിദ്യയായി കണക്കാക്കണം അതിനുശേഷം സാമ്പത്തിക മൂലധനം താങ്ങാനാവുന്ന ഓഹരികൾ പോലുള്ള സാമ്പത്തിക മൂലധനം എന്തൊക്കെയാണ് ചില ബാങ്ക് നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ്സ് ക്രെഡിറ്റുകൾ കന്നുകാലികൾ ആഭരണങ്ങൾ എന്നിവയെല്ലാം താങ്ങാനാവുന്ന സ്റ്റോക്കുകളായി കണക്കാക്കണം പണത്തിന്റെ പതിവ് വരവ് പെൻഷനുകൾ പണമയയ്ക്കൽ വേതനം എന്നിവ പോലെ ഇവയാണ് പണത്തിന്റെ പതിവ് വരവ് പ്രകൃതിദത്ത മൂലധനം എന്തൊക്കെയാണ് ഭൂമി വനങ്ങൾ സമുദ്രം പരിസ്ഥിതി സേവനങ്ങൾ ഇവയെല്ലാം പ്രകൃതി മൂലധനമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ധനികരെ അവർക്ക് കൂടുതൽ സാമ്പത്തിക മൂലധനവും വലിയ മാനുഷിക മൂലധനവുമുണ്ട് അതേസമയം ദരിദ്രർ സാമ്പത്തിക മൂലധനം മാനുഷിക മൂലധനം ഭൌതിക മൂലധനം എന്നിവയിൽ വളരെ ദരിദ്രരാണ് ഭൂരഹിതരായ തൊഴിലാളികൾ മികച്ച ഉദാഹരണം ഇതാ അയാൾക്ക് അധ്വാനം പോലെ മാനുഷിക മൂലധനമുണ്ടായിരുന്നു പക്ഷേ അവൻ അല്ലെങ്കിൽ അവൾ നിരക്ഷരനാണ് മോശം ആരോഗ്യവും അവിദഗ്ദ്ധവും സാമൂഹിക മൂലധനവും പൊതുവെ പുറത്താക്കപ്പെട്ടവരും സാമൂഹികമായിഒരു ബന്ധവുമില്ല സ്വന്തം സമുദായത്തിനുള്ളിലെ ശൃംഖലയാണ് പുറത്തുനിന്നുള്ളതും ഗ്രാമ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയാത്തതുമാണ് ലേബർ ക്ലാസ് ആളുകൾ അവൾ താഴ്ന്ന ജീവിത നിലയും മോശം ബാഹ്യ ബന്ധങ്ങളും ആണ് അവർക്കുള്ളത് ഭൌതിക മൂലധനം ഒരുപക്ഷേ ജലസേചന സൌകര്യമില്ല മഴയെ ആശ്രയിച്ചുള്ള കൃഷി മോശം ഭവന നിർമ്മാണം ജൈവ വളങ്ങൾ പ്രാദേശിക കാർഷിക സാങ്കേതികവിദ്യ പരമ്പരാഗത കാർഷിക പരിജ്ഞാനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു സാമ്പത്തിക മൂലധനം കുറഞ്ഞ വേതനം സമ്പാദ്യം പണമയയ്ക്കൽ ബാങ്ക് വായ്പകളിലേക്ക് പ്രവേശനം എന്നിവ പോലുമില്ല പ്രകൃതിദത്ത മൂലധനം ഭൂരഹിതമാണ് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലും വരൾച്ച പ്രദേശങ്ങളിലും താമസിക്കുന്നു അതിനാൽ ഇവയെല്ലാം ദുർബലതയുടെ സന്ദർഭത്തെ നിർവചിക്കുന്നു തുടർന്ന് ദുർബലമായ സന്ദർഭം ഉപജീവന ആസ്തികളോ വിവിധതരം മൂലധനങ്ങളോ ആണ് ഈ മൂലധനവും ദുർബലതയെ പുനർനിർവചിക്കുന്നു എന്നാൽ ഇവ രണ്ടും നയ സ്ഥാപനത്തെയും പ്രക്രിയയെയും സ്വാധീനിക്കുന്നു 5 വ്യത്യസ്ത മൂലധനങ്ങളിലേക്കുള്ള 5 വഴിയും വിവിധ തരം മൂലധനങ്ങൾ തമ്മിലുള്ള കൈമാറ്റ നിബന്ധനകളും ഉപജീവന തന്ത്രങ്ങളിൽ നിന്നുള്ള സാമ്പത്തികവും മറ്റ് വരുമാനവും അവ നിർണ്ണയിക്കുന്നു അപ്പോൾ പരിവർത്തന ഘടനയും പ്രക്രിയയും എന്താണ് ഒന്ന് സ്ഥാപന സംഘടന നയങ്ങൾ നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണ് രൂപപ്പെടുത്തുന്ന ഉപജീവനമാർഗ്ഗങ്ങൾ അവ എങ്ങനെ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ പരിവർത്തന ഘടനയും പ്രക്രിയയും നമ്മൾ ഗവൺമെന്റിന്റെ നയങ്ങൾ എന്ന് വിളിക്കുന്നു അത് പ്രാദേശിക അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആകാം അത് മനുഷ്യ മൂലധനത്തെ വളരെയധികം സ്വാധീനിക്കുകയും എൻജിഒകളുടെ നയങ്ങൾ പോലുള്ള കേടുപാടുകൾ അവ ഇവിടെ വരാം വരാതെയുമിരിക്കാം ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്തർദ്ദേശീയ സ്ഥാപനങ്ങളോ അവിടത്തെ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് ആ ഘടനയുടെ വ്യവസ്ഥകൾ രാഷ്ട്രീയ ഭരണ മേഖലകൾ പ്രതിനിധി എക്സിക്യൂട്ടീവ് ഏജൻസികൾ സിവിൽ സൊസൈറ്റികളും എൻജിഒകളും രാഷ്ട്രീയ പാർട്ടികളും നിയമവും വാണിജ്യ സംരംഭവും തീരുമാനമെടുക്കുന്നവർ ആരാണ് എങ്ങനെ തീരുമാനം അത് ജനാധിപത്യപരമോ അല്ലയോ നിയമം ആചാരങ്ങൾ മാനദണ്ഡങ്ങൾ അവ കർശനമാണോ അല്ലയോ അവ അനൌപചാരികമോ സ്പഷ്ടമോ പരോക്ഷമോ ആണ് ഇവയെല്ലാം പ്രാധാന്യമർഹിക്കുന്നു ഭാഷയും ഏത് ഭാഷ അവ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് ജാതിവ്യവസ്ഥ ക്ലാസ് സമ്പ്രദായം ഈ പ്രക്രിയയെ യഥാർത്ഥത്തിൽ നിർവചിക്കുന്ന സ്റ്റാറ്റസ് തുടങ്ങിയ സാമൂഹിക നാടകങ്ങൾ നമുക്ക് ദുർബലമായ സന്ദർഭമുണ്ട് അത് മനുഷ്യ മൂലധനത്തെ തിരിച്ചും ബാധിക്കുന്നു തുടർന്ന് അത് നയ സ്ഥാപനങ്ങളെയും പ്രക്രിയയെയും സ്വാധീനിക്കുന്നു ഈ ചട്ടക്കൂട് ദുർബലതയെയും സ്വാധീനിക്കുന്നു തുടർന്ന് ഇത് ആളുകൾ എടുക്കുന്ന ഉപജീവന തന്ത്രത്തിലേക്ക് നയിക്കുന്നു ഈ ഉപജീവന തന്ത്രം ആത്യന്തികമായി ഉപജീവന ഫലങ്ങളിലേക്ക് പോയി എന്താണ് അത് വീണ്ടും ആളുകളുടെ മൂലധനങ്ങളെയും ദുർബലതയെയും ബാധിക്കുന്നു ആളുകൾക്ക് സ്വീകരിക്കാവുന്ന ഉപജീവന തന്ത്രങ്ങൾ ഇതാ അതിലൊന്ന് ദുർബലമായ സന്ദർഭവും ഘടനയും പ്രക്രിയയും പരിവർത്തനം ചെയ്യുന്നതിന്റെ സ്വാധീനത്തിൽ ഉപജീവന ആസ്തികളും മൂലധനവും ഉപയോഗിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഞാൻ എന്ത് ദുര്ബലതയ്ക്കാണ് തുറന്നുകാട്ടപ്പെടുന്നത് തുടർന്ന് ഏത് തരത്തിലുള്ള മൂലധനങ്ങൾ ഏത് തരത്തിലുള്ള ഭരണം അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന ഘടനകൾ എന്നിവയാണ് യഥാർത്ഥത്തിൽ ഉപജീവന തന്ത്രങ്ങളെ നിർവചിക്കുന്നത് ദുർബലത സന്ദർഭം യഥാർത്ഥത്തിൽ മൂലധനങ്ങളെ സ്വാധീനിക്കുന്നു മൂലധനം പിന്നീട് ആഘാതം പ്രവണതകൾ കാലാനുസൃതത എന്നിവയുൾപ്പെടെയുള്ള ദുർബലത സന്ദർഭത്തെ സ്വാധീനിക്കുന്നു നയങ്ങളും സ്ഥാപനങ്ങളും പ്രക്രിയയും സ്വാധീനിച്ച ഇവ രണ്ടും കൂടിച്ചേർന്നതാണ് നയങ്ങളും സ്ഥാപനങ്ങളും പ്രക്രിയയും ആളുകളുടെ ദുർബലതയെയും മൂലധനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു ഈ ചട്ടക്കൂടിനെ അടിസ്ഥാനമാക്കി ആളുകൾ ഉപജീവന തന്ത്രം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഉപജീവന തന്ത്രം സ്വീകരിക്കാം ആ ഉപജീവനമാർഗ്ഗത്തിന് പൊതുവെ ചില ഫലങ്ങളുണ്ട് അത് അവരുടെ മൂലധനങ്ങളെയും വീണ്ടും ദുർബലതയെയും ബാധിക്കുന്നു ഈ ആശയം ഇത്തരത്തിലുള്ളതാണ് വളരെ നന്ദി